പ്രിയരേ കഴിഞ്ഞ മൊഡ്യൂളിൽ നമ്മൾ പ്രോക്സെമിക്സിന്റെ എന്നിവയുടെ അടിസ്ഥാനത്തിൽ സംസ്കാരങ്ങൾ എങ്ങനെ വേർതിരിയുന്നു എന്നതും പശ്ചാത്തലങ്ങൾ എങ്ങനെ ചില സംസ്കാരങ്ങളിൽ പ്രധാനമാകുന്നു എന്നതും ചില ഇടങ്ങളിൽ അപ്രസക്ത മാകുന്നുവെന്നതും കൂടാതെ അകലം പാലിക്കലിനെക്കുറിച്ചുള്ള പൊതുധാരണകളും ഉൾപ്പെടുന്നു നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ അകലത്തെ നോക്കിക്കാണുന്നതിനുള്ള ഒരു മാർഗ്ഗമാണ് പ്രോക്സെമിക്സ് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമുക്കിടയിലും ചിലപ്പോൾ മറ്റുള്ളവർക്കിടയിലും അകലം പാലിക്കാറുണ്ട് അവരുടെ വികാരങ്ങളെയും ചിന്താഗതികളെയും വിലയിരുത്തുന്നതിനായി ചെറു അകലങ്ങൾ അല്ലെങ്കിൽ മൈക്രോ സ്പേസ് വളരെ കൃത്യമായി പരാമർശിക്കുന്നു ഇതാണ് ദൈനംദിന ഇടപെടലുകൾ നടത്തുന്നവർക്ക് ഇടയിലെ അകലബോധം കുടുംബത്തിലും കെട്ടിടങ്ങളിലും തന്റെ ടൌണിന്റെ ഘടനയിൽത്തന്നെ ഇത് പ്രതിഫലിക്കുന്നുവത്രേ അപ്പോൾ നമ്മൾ മനസ്സിലാക്കി പ്രോക്സെമിക്സ് എന്നാൽ പരസ്പരം ആളുകൾക്കിടയിലും ആൾക്കൂട്ടങ്ങൾക്കിടയിലും പാലിക്കുന്ന അകലം മാത്രമല്ല അകലവുമായി ബന്ധപ്പെട്ടുകിടക്കുന്ന നിരവധി കാര്യങ്ങളുമുണ്ട് ചില ആശയങ്ങളുടെ വിനിമയത്തിൽ അവ പ്രസക്തവുമാകുന്നു അതേസമയം തന്നെ നമ്മൾ മനസ്സിലാക്കിയ മറ്റൊരു കാര്യം പ്രോക്സെമിക്സ് ഒരു നാടിന്റെ സംസ്കാരത്തെ കയ്യിലൊതുക്കുകയും അതിൽ നിന്നുകൊണ്ട് ഒരു പ്രത്യേക അകലം ആ ജനതയിലുണ്ടാക്കുന്ന മാനസിക ഭാവങ്ങളെയും വികാരങ്ങളെയും ആത്മവിശ്വാസത്തെയുമെല്ലാം ബന്ധിപ്പിക്കുകയും അകലം എത്രമാത്രമാകുമ്പോൾ അവർക്ക് അസഹ്യത തോന്നുമെന്ന് മനനസ്സിലാക്കുകയും ചെയ്യുന്നു ഹാളിന്റെ നാല് മേഖല സങ്കല്പത്തിൽ ഇന്നും ചോദ്യം ചെയ്യപ്പെടാതെ നില്ക്കുന്ന ഒന്ന് പ്രോക്സെമിക്സ് സ്വഭാവവും സംസ്കാരവുമായും ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന വസ്തുതയാണ് ഇതാണ് നമ്മളിവിടെ വിശദമായി വിവരിക്കുന്നത് 1959 ൽ പ്രസിദ്ധീകരിച്ച ദി സൈലന്റ് ലാംഗ്വേജ് എന്ന് രണ്ടായി ഹാൾ വിഭജിക്കുന്നു സമ്പർക്ക സംസ്കാരം എന്നതു വഴി ഹാൾ വിശദമാക്കുന്നത് പരസ്പരം അകലം പാലിക്കുമ്പോഴും സ്പർശത്തെ നിഷേധിക്കാത്ത സമൂഹത്തെയാണ് തന്റെ പഠനങ്ങളുടെ വെളിച്ചത്തിൽ ഹാൾ പറയുന്നു തെക്കൻ യൂറോപ്യൻ രാജ്യങ്ങളും അറബി നാടുകളും സമ്പർക്ക സമൂഹങ്ങളാണ് ഈ നാടുകളിൽ ജനങ്ങൾ എല്ലാ സാഹചര്യത്തിലും പരസ്പരം അടുത്തിടപഴകുന്നതിനാൽ സ്പർശനവും കൂടുതലാണ് തന്റെ താരതമ്യ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില പ്രദേശങ്ങളെ സമ്പർക്കേതര സംസ്കാരത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വടക്കേ യൂറോപ്യൻ രാജ്യങ്ങളിലും വടക്കേ അമേരിക്കയിലും ജനങ്ങൾ പരസ്പരം എല്ലായിടത്തും അകലം പാലിക്കുന്നു കൂട്ടത്തിൽ പറയട്ടേ സ്വിസ് എത്തോളജിസ്റ്റ് കൃത്യതയോടെ വീക്ഷിക്കുന്നു ഫ്ലൈറ്റ് എന്ന് അകല സങ്കല്പങ്ങൾക്ക് നാല് പേരുകളും നല്കി മനുഷ്യർ പരസ്പരം പാലിക്കുന്ന അകലത്തെക്കുറിച്ച് ഹാൾ നിരവധി കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏതായാലും പ്രോക്സെമിക്സ് സ്വഭാവത്തിന്റെ സാംസ്കാരിക മാനങ്ങൾ എന്ന ആശയത്തിന്റെ ക്രെഡിറ്റ് ഹാളിനുമാത്രം അവകാശപ്പെട്ടതാണ് ഹാൾ നമ്മുടെ ശ്രദ്ധയാകർഷിക്കുന്ന മറ്റൊരു ഘടകം ഉന്നതവും താഴ്ന്നതുമായ സാമൂഹികപ്രകരണമാണ് പ്രകരണംകോൺടെക്സ്റ്റ് എന്ന ആശയത്തിലൂടെ അദ്ദേഹം നിർദ്ദേശിക്കുന്നത് ഒരു വ്യക്തിയുടെ സ്വഭാവം പൂർണ്ണമായി മനസ്സിലാക്കണമെങ്കിൽ ലഭിച്ച വിവരങ്ങളനുസരിച്ച് ആ വ്യക്തിയുടെ സാഹചര്യങ്ങളെയും പശ്ചാത്തലത്തെയും പൂർണ്ണമായി എൻകോഡ് ചെയ്യേണ്ടതുണ്ട് എന്നാണ് നമ്മുടെ നിത്യസംഭാഷണങ്ങളിലോ പ്രോക്സെമിക്സ് സ്വഭാവത്തിലോ മറ്റുള്ളവരുമായുള്ള അകലം പാലിക്കലിലോ എല്ലാം ഇത് പ്രതിഫലിച്ചുവെന്ന് വരാം ഉന്നതസംസ്കാരത്തിലെ ആശയവിനിമയം പ്രതീകാത്മകമാകുമെന്ന് അദ്ദേഹം പറയുന്നു വാക്കുകൾക്കപ്പുറം നില്ക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ചുമുള്ള ധാരണ ജനങ്ങൾക്കിടയിലുണ്ട് അത് ആശയഗ്രഹണത്തെയും ഡീകോഡ് ചെയ്യലിനെയും സ്വാധീനിക്കുകയും ചെയ്യും ഉദാഹരണത്തിന് സാമൂഹിക തലങ്ങളിലും സാമൂഹിക സ്ഥാനങ്ങളിലും പുലർത്തുന്ന പ്രത്യക ഭാഷാ ശൈലികൾ നമ്മൾ എന്തോ അകലംപാലിക്കുന്നുവെന്ന ധ്വനിയുണർത്തുന്നു ഹാളിന്റെ പഠനത്തിൽ പറയുന്നു ജപ്പാനും പല ഏഷ്യൻ സമൂഹങ്ങളും ചില പടിഞ്ഞാറൻ രാജ്യങ്ങളും ഇത്തരത്തിൽ പ്രതീകാത്മക വിനിമയം നടത്തുന്നവരാണ് എന്ന് ഒരു ബ്രിട്ടീഷുകാരൻ സാധാരണ ഉപയോഗിക്കുന്ന പ്രയോഗത്തെ ഹാൾ രസകരമായി ഉദാഹരിക്കുന്നു "I hear what you say" എന്നോ "Oh I almost agree" എന്നോ ഒരു ബ്രിട്ടീഷ് കമന്റ് ഉന്നത സംസ്കാര ശ്രേണിയിൽ ഉൾപ്പെടാത്ത ഒരാൾ ഈ കമന്റിനെ പറഞ്ഞതിനോടുള്ള അനുകൂല നിലപാടായി മാത്രമേ സ്വീകരിക്കുകയുള്ളൂ ഉന്നത സംസ്കാര പ്രകരണത്തിൽ ഈ വാക്യങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന വിരോധാഭാസത്തെ ഉൾക്കൊള്ളുവാൻ അയാൾക്ക് കഴിയണമെന്നില്ല മറുവശത്ത് നിമ്ന സംസ്കാര പ്രകരണത്തിൽ നില്ക്കുന്നവർ ലഘുവായ ആശയവിനിമയത്തിലാണ് വിശ്വസിക്കുന്നത് അവിടെ ഒരു ആശയമേയുള്ളൂ മറ്റൊരു ഘടകവും ആശയത്തെ സ്വാധീനിക്കുന്നുമില്ല നിമ്നസംസ്കാരത്തിൽ ആശയവിനിമയത്തിലെ അർത്ഥങ്ങൾ വ്യവസ്ഥയുള്ളതാണ് അതിലെ കൃത്യതയും വ്യവസ്ഥകളും ആശയത്തെ വേഗത്തിൽ വിനിമയം ചെയ്യുന്നതിന് സഹായിക്കുന്നു അമേരിക്കയിലെയും ജർമ്മനിയിലെയും ഉദാഹരണങ്ങളാണ് ഹാൾ മുന്നോട്ടു വയ്ക്കുന്നത് അതേസമയം ഒരു വ്യക്തി പ്രകരണത്തെ കണക്കാക്കുന്നുണ്ടോ എന്നത് അയാളുടെ സാമൂഹ്യ സ്ഥാനങ്ങളെ ആശ്രയിച്ചിരിക്കും നമ്മൾ മുൻചർച്ചകളിൽ കണ്ടതുപോലെ വാചികേതര ആശയവിനിമയത്തിന്റെ ഒരു ഘടകത്തെ മാത്രം വച്ചുകൊണ്ട് അവസാന അർത്ഥത്തെ അനുമാനിക്കില്ല അതിനെ അനുഗുണമായ ഒരു ചിഹ്നമായി മാത്രമേ കണക്കാക്കൂ നിമ്നോച്ച സംസ്കാരങ്ങളിലെ ഈ സവിശേഷതകൾ അകല പരിപാലനത്തിലും പ്രതിഫലിക്കുന്നു വർത്തമാനകാല ഗവേഷണങ്ങൾ പറയുന്നത് അകല പരിപാലനത്തിലും ആർക്കിടെക്ച്ചറിലും മാത്രമല്ല ഈ ഘടകങ്ങൾ പ്രതിഫലിക്കുന്നത് മറിച്ച് വ്യത്യസ്ത സംസ്കാരങ്ങളിലെ വെബ് പേജുകളിലും സമയ ബോധത്തിലുമെല്ലാം ഇത് കാണാം എന്നാണ് ആശയവിനിമയത്തിൽ നാം പാലിക്കുന്ന സമയക്രമം മോണോക്രോമോ അതോ സമയത്തെക്കുറിച്ചുള്ള വ്യത്യസ്തധാരണകൾ സംസാരത്തിൽ പ്രതിഫലിക്കുമോ ഒരു തരത്തിൽ നോക്കുമ്പോൾ ആശയവിനിമയ സ്വഭാവത്തിൽ പ്രോക്സെമിക്സ് ധാരണ കൾക്ക് ദൂരവ്യാപകമായ സാധ്യതകൾ തന്നെയുണ്ട് ഈ വാദം മുന്നോട്ടു പോകുമ്പോൾ നമുക്ക് ഉന്നത പ്രകരണ ആശയവിനിമയം പൊതുവിൽ വിനയത്തോടെയും ആദരവോടെയും ആണ് നടക്കുന്നതെന്ന് പറയാം ഇത്തരം സംഭാഷണങ്ങളിൽ നിശ്ചിത പ്രോക്സെമിക്സ് അകലം പാലിക്കുകയും അതേസമയം തന്നെ അത് പ്രകടമാക്കാതിരിക്കുകയും ചെയ്യുന്നു നിമ്നസംസ്കാര ആശയവിനിമയ സാഹചര്യങ്ങളിൽ വിനയം പ്രകടമാകുന്നില്ലെന്നും ആന്തരികാർത്ഥങ്ങളിലേക്ക് കടക്കുന്നില്ലെന്നതും കാണാം അതി നാൽത്തന്നെ ആ ആശയവിനിമയം വേഗമേറിയതുമാണ് അതേ സമയം തന്നെ നിമ്നസംസ്കാര ആശയവിനിമയം തുറന്നതും സത്യസന്ധമായതുമാണ് അത് നേർഭാഷണം ആയതു കൊണ്ടുതന്നെ ആധികാരികതയും കൂടും ഉന്നതസംസ്കാര ആശയവിനിമയം മറപിടിച്ചതും ധാർഷ്ട്യം ഉള്ളടങ്ങിയതും അതിനാൽത്തന്നെ പൂർണ്ണമായി വിശ്വസിക്കാൻ പ്രയാസമുള്ളതുമാണ് അത് ഔപചാരികവും വേഗത കുറഞ്ഞതുമാണ് അന്തർസംസ്കാര സാഹചര്യങ്ങളിൽ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ നിമ്നോച്ച സംസ്കാര പ്രകരണങ്ങൾ എത്രമാത്രം പ്രധാനമാണെന്ന് ഈ ചിത്രം ബോധ്യപ്പെടുത്തുന്നു സാഹചര്യം മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് സംസാരിക്കുന്ന ആളുടെ സാംസ്കാരിക സാഹചര്യം അറിഞ്ഞെങ്കിൽ മാത്രമേ ആ ഭാഷണത്തിലെ വ്യംഗ്യ സൂചനകളെ തിരിച്ചറിയുവാനും പ്രസ്തുത പ്രകരണത്തിലെ ആശയങ്ങളെ ഡീകോഡ് ചെയ്യാനും സാധിക്കുകയുള്ളൂ വിവിധ സാധ്യതകളെ തിരിച്ചറിയുവാനും വിവരങ്ങൾ ശരിയാം വിധം കൈമാറാനും നേതൃസ്ഥാനത്തു നിന്നും ഓരോ ആളും പ്രതീക്ഷിക്കുന്നതെന്തെന്ന് മനസ്സിലാക്കുവാനും ഇത് സഹായകമാകുന്നു ഓരോ സമീപനത്തിനും അതിന്റേതായ സവിശേഷ തകളുണ്ടെന്ന് കാണാം ഈ വീഡിയോ ഇത് നിങ്ങൾക്ക് പിന്നീട് പരിശോധിക്കാവുന്നതാണ് ഇതിൽ നിമ്നോച്ച സംസ്കാരങ്ങളെക്കുറിച്ച് രസകരമായിത്തന്നെ പ്രതിപാദിക്കുന്നു എന്താണ് സംസ്കാരത്തിലെ നിമ്നോച്ച പ്രകരണങ്ങൾ എന്താണ് നിമ്ന സംസ്കാര പ്രകരണം ഒരു നിമ്ന സംസ്കാര പ്രകരണത്തിൽ സാധാരണയായി ആളുകൾ തുറന്ന് സംവദിക്കുകയും അതുവഴി നിരവധി ആശയങ്ങൾ ലഭിക്കുകയും ചെയ്യുന്നു എന്താണ് ഉന്നത സംസ്കാര പ്രകരണം ഉന്നത സംസ്കാര പ്രകരണം ദീർഘകാല ബന്ധത്തേ ആസ്പദമാക്കിയുള്ളതാണ് അത് ഔപചാരികം ആയതും അർത്ഥാന്തരങ്ങളുള്ളതും ആയിരിക്കും ഇവിടെ ശരീരഭാഷ ശ്രദ്ധിക്കേണ്ടതും അനിവാര്യമാകുന്നു നിമ്നോന്നത സംസ്കാരപ്രകരണങ്ങൾക്ക് ചില ഉദാഹരണങ്ങൾ ഇത് നിമ്നസംസ്കാരവും ഉന്നത സംസ്കാരവും തമ്മിലുള്ള ഒരു സംഘട്ടനം - ഓരോന്നും സ്പഷ്ടമായി വിവരിക്കുക വഴി ജർമ്മൻകാർ തങ്ങളെ ബൌദ്ധികമായി അവഹേളിക്കുകയാണെന്ന് ഫ്രഞ്ച് ജനതയ്ക്കും ഫ്രഞ്ച് മാനേജേഴ്സ് തങ്ങൾക്ക് കൃത്യമായ നിർദ്ദേശം തന്നില്ലെന്ന് ജർമ്മൻകാർക്കും തോന്നാം ഉന്നത സംസ്കാര പ്രകരണത്തിന് ഒരു ഉദാഹരണമാണ് ഇത് ചൈനയിലെ ആതിഥേയ സംസ്കാരമാണ് അതിഥിക്ക് ഭക്ഷണം കുറച്ചു നല്കുക എന്നത് ഇത് അതിഥിക്ക് കൂടുതൽ ചോദിച്ചു വാങ്ങുവാനുള്ള അവസരം ഒരുക്കുന്നു മാത്രമല്ല ഭക്ഷണം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മുഖം രക്ഷിക്കുകയും ചെയ്യാം ഇത് നിമ്നസംസ്കാര പ്രകരണത്തിന് ഉദാഹരണം വ്യക്തിപരമായ പരിശ്രമത്തിന്റെ ഫലമായി ബിസിനസ്സിൽ നിരന്തര മുന്നേറ്റം സാധ്യമാകുന്നു ബിസിനസ്സ് സംസ്കാരം ഇത് ഉന്നത സംസ്കാര പ്രകരണത്തിലെ ഒരു വിഷയമാണ് നിമ്നസംസ്കാര പ്രകരണത്തിൽ ഇത് കുറവാണ് ഉദാഹരണത്തിന് ചൈനക്കാർ അന്തസ്സിനെ മാനിക്കുന്നു അതിനനുസൃതമായാണ് ബഹുമാനവും നല്കുന്നത് എന്നാൽ നിമ്ന സംസ്കാരത്തിൽ വരുന്ന ജർമ്മൻ ജനതയാകട്ടേ നിങ്ങളെയൊ നിങ്ങളുടെ അന്തസ്സിനെയോ മാനിക്കുന്നില്ല കാര്യ ക്ഷമതയെയാണ് അവർ മാനിക്കുന്നത് ഒരു ജർമ്മൻ സൂപ്പർവൈസർ സ്ഥാനത്തിന്റെ പേരിൽ മാത്രം മുമ്പനാകുന്നില്ല കഠിനാധ്വാനം ചെയ്യുന്നവരെല്ലാം അവിടെ മാനിക്കപ്പെടുന്നു ഈ പശ്ചാത്തലത്തിലാണ് നമ്മൾ അകലത്തിന്റെ വ്യംഗ്യാർത്ഥങ്ങളിലെ സാംസ്കാരിക വൈവിധ്യങ്ങളെ ചർച്ചാ വിഷയമാക്കുന്നത് ഇന്റിമേറ്റ് എന്ന പഠനത്തിൽ അറബ് പുരുഷന്മാർ അമേരിക്കൻ പുരുഷന്മാരേക്കാൾ കൂടുതൽ അടുത്ത് ഇരിക്കുന്നവരാണെന്ന് പറഞ്ഞിരിക്കുന്നു അറബുകൾ ശരീരത്തെ നേരിട്ട് അഭിമുഖീകരിക്കുകയും മികച്ച നേത്ര സമ്പർക്കത്തിലൂടെയും ഉറച്ച ശബ്ദത്തിലൂടെയും ഇടപെടുകയും ചെയ്യുന്നു മറ്റൊരു ഉദ്ധൃതപഠനം 1968 ൽ ഫോർസ്റ്റണും ലാർസണും നടത്തിയ ഒരു പഠനത്തെയും ഉദാഹരിക്കുന്നു ജർമ്മൻകാരെയും അമേരിക്കക്കാരെയും കാൾ കൂടുതലായി ഇറ്റലിക്കാർ ഇടപെടുന്നുവെന്ന് ഈ പഠനം രേഖപ്പെടുത്തുന്നു 1976 ലെ ഷട്ടറുടെ സൂചിപ്പിക്കുന്നു അതിൽ കൊളംബിയൻസ് കോസ്റ്റാറിക്കൻസിനേക്കാൾ കൂടുതലായി ഇടപഴകുന്നുവെന്ന് പറയുന്നു സ്ഥലത്തെക്കുറിച്ചുള്ള ഈ വ്യംഗ്യസൂചനകൾ നമ്മുടെ മനസ്സിലുള്ള സാംസ്കാരിക വൈവിധ്യത്തിന്റെ സാധ്യതകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് വ്യക്തിപരമായ ഇടപെടലുകളിലെ സ്ഥല ബോധം എങ്ങനെ വ്യത്യസ്ത സംസ്കാരങ്ങളിൽ അനുമാനിക്കപ്പെടുന്നുവെന്ന് ഈ ചിത്രം നമ്മെ ബോധ്യപ്പെടുത്തുന്നു പ്രോക്സെമിക്സിന്റെ കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള മറ്റൊരു പ്രധാന വസ്തുത ലിംഗബോധത്തിൽ നിന്നു കൊണ്ടുള്ള നമ്മുടെ ധാരണകളാണ് അതു പോലെ സാമൂഹിക തലങ്ങളെക്കുറിച്ചുള്ള ധാരണയും എങ്ങനെ പ്രോക്സെമിക്സിൽ പ്രതിഫലിക്കുന്നുവെന്നതും സമൂഹത്തിൽ ഒരു ലിംഗത്തെ എങ്ങനെയാണ് അടയാളപ്പെടുത്തുന്നത് എന്നത് സ്ഥല ചിന്തയെ സ്വാധീനിക്കുന്നു അതുപോലെ വിവിധ ലിംഗങ്ങളിലെ ബന്ധങ്ങൾ എങ്ങനെയുള്ളതാണെന്നതും ഒരു ഘടകമായി വരുന്നു സമ്പർക്ക സംസ്കാരം ചെറിയ അകലം പാലിക്കുന്നതെങ്ങനെയെന്നും സമ്പർക്കേതര സംസ്കാരങ്ങൾ അടുത്ത ഇടപെടലിനെയും സ്പർശത്തെയും ഒഴിവാക്കുന്നതെങ്ങനെയെന്നും നാം കണ്ടു കഴിഞ്ഞു ഇത്തരം ശീലങ്ങളാണ് സംസ്കാര ചിഹ്നങ്ങളായി ചെറു പ്രായത്തിലേ നമ്മൾ പഠിച്ചു വയ്ക്കുന്നത് പല ഗവേഷകരും നമ്മളോട് പറയുന്നത് മൂന്നു വയസ്സാകുമ്പോഴേ കുട്ടി ഇത്തരം സാംസ്കാരിക ചിഹ്നങ്ങളെ ഉൾക്കൊള്ളു ന്നുവെന്നാണ് നമ്മുടെ അകലബോധത്തെ നിർവ്വചിക്കുന്ന ഇത്തരം സാമൂഹിക സാംസ്കാരിക ചിഹ്നങ്ങൾ ലിംഗബോധാധിഷ്ഠിതമായ ഒരു സ്വഭാവത്തിനും കാരണമാകുന്നു നിത്യ ജീവിതത്തിലെ പ്രവർത്തനങ്ങളിലും തൊഴിൽജീവിതത്തിലും അകലം പാലിക്കൽ സങ്കല്പം ആവശ്യമാണെന്ന ധാരണ ഈ സന്ദർഭത്തിൽ നമുക്ക് മനസ്സിലാക്കാം ഇന്ന് ലോകത്ത് പല സംസ്കാരങ്ങളിൽ പല നിയമങ്ങളാണ് വ്യത്യസ്ത ലിംഗക്കാർക്കുള്ളത് അതായത് ഇവ ഒരുപോലെയല്ലെന്ന് സാരം അതു കൊണ്ടുതന്നെ വ്യത്യസ്ത സംസ്കാരങ്ങളിൽ വ്യത്യസ്ത രീതിയിലാണ് ഈ ഇടങ്ങൾ അടയാളപ്പെടുന്നത് ഇതിനെ ലിംഗാധിഷ്ഠിത സ്ഥലവിന്യസനം എന്ന് വിളിക്കുന്നു പരമ്പരാഗത സംസ്കാരത്തിൽ ലിംഗാധിഷ്ഠിതസ്വഭാവം വളരെ പ്രകടമായിരുന്നുവെന്നത് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ലിംഗം അനുസരിച്ച് സ്ഥലം അനുമാനിക്കുകയും വ്യത്യസ്ത ലിംഗത്തിൽപ്പെടുന്നവർ വ്യത്യസ്ത രീതിയിൽ ഇടപെടുകയും ചെയ്തിരുന്നു ചില ഗവേഷണങ്ങൾ കണ്ടെത്തിയ വസ്തുത കക്കേഷ്യൻ ജനതയ്ക്ക് സ്ത്രീകൾ തങ്ങളുടെ ഇടങ്ങൾ കൈയ്യേറുന്നതായുള്ള തോന്നൽ വളരെ കുറവാണ് അതിനാൽ സ്ത്രീകൾ വരുമ്പോൾ അവർക്ക് ഭയമോ അസ്വസ്ഥതയോ ഉണ്ടാകുന്നുമില്ല മറിച്ച് മധ്യഏഷ്യൻ പ്രത്യേകിച്ച് ആഫ്രിക്കൻ സംസ്കാരങ്ങളിൽ പുരുഷന്മാർക്കു സ്ത്രീകൾ തങ്ങളുടെ സ്വകാര്യ ഇടം കയ്യേറുന്നതായി അനുഭവപ്പെടാം ഇത് മറ്റു ഇടങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയിലും വ്യക്തമാണ് സംസ്കാരങ്ങൾക്ക് പെരുമാറ്റ കാര്യത്തിൽ വ്യത്യസ്ത മാനങ്ങളുണ്ട് അതുപോലെ തന്നെ ലിംഗപരിഗണനകളും സ്ഥലം എങ്ങനെ വിനിയോഗിക്കുന്നുവെന്ന് മനസ്സിലാക്കുവാൻ ഈ ധാരണകൾ ആവശ്യമാണ് ക്രോസ്ജൻഡർ സാഹചര്യങ്ങളിൽ ഓരോ സംസ്കാരത്തിലും പുരുഷന്റെ പ്രോക്സെമിക്സ് ധാരണകളിൽനിന്ന് വളരെ വ്യത്യസ്തമാണ് സ്ത്രീകളുടേത് ചില സംസ്കാരങ്ങളിൽ ക്രോസ്ജൻഡർ സാഹചര്യങ്ങളിൽ ഇടപെടേണ്ടി വരുമ്പോൾ സ്ത്രീകൾ കൂടുതൽ സെൻസിറ്റീവ് ആകുന്നത് കാണാം അതു കൊണ്ടുതന്നെ പുരുഷന്മാർ തങ്ങളുടെ ഇടം കയ്യേറുന്നു എന്ന് തോന്നുന്ന സാഹചര്യങ്ങൾ അവർ ഒഴിവാക്കിയേക്കും ഡയാഡിക് ഇടപെടലുകളിലെ കൂടുതൽ അടുത്ത പ്രോക്സെമിറ്റി വിനിമയം ചെയ്യുന്നത് ഉന്നതമായ ആധിപത്യത്തെയാണ് പല സമൂഹങ്ങളിലും ഇത് പുരുഷന്റെ സ്വഭാവ സവിശേഷതയായാണ് വിലയിരുത്തുന്നതും അതിനാൽ ഇത്തരം സ്ഥിരസങ്കല്പങ്ങൾ അത്തരം സമൂഹങ്ങളിൽ പ്രബലമാണ് സ്ഥലത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയും അത് പരസ്പര ഇടപെടലുകളിൽ എങ്ങനെ വിനിയോഗിക്കുന്നുവെന്നതും ഓരോ പ്രത്യേക സംസ്കാരത്തിന്റെയും ലിംഗപദവിയെയും ആശ്രയിച്ചായിരിക്കും എന്ന ആശയമാണ് ഈ ചർച്ചകളുടെയെല്ലാം പിറകിലുള്ള കേന്ദ്രാശയം ഇത്തരം വ്യത്യാസങ്ങളോടുള്ള നമ്മുടെ പ്രതികരണം സാംസ്കാരികമോ വ്യക്തിപരമോ ആകാം ഒരേ സംസ്കാരത്തിൽത്തന്നെ ഓരോ വ്യക്തിയും പെരുമാറുന്നത് വേറിട്ട രീതികളിലാണെല്ലോ വ്യത്യാസങ്ങളോടുള്ള ഈ പ്രതികരണം മറ്റുള്ളവരുടെ പെരുമാറ്റ രീതികളെ കൂടുതൽ നിരീക്ഷിക്കു ന്നതിനും അതുവഴി സ്വയമൊരു മികച്ച ആശയവിനിമയശേഷിയുള്ള ഒരാളായി പരിവർത്തിക്കുവാനും സാധിക്കുന്നു പ്രോക്സെമിക്സ് പെരുമാറ്റത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമ്മൾ കണക്കിലെടുക്കേണ്ട മറ്റൊരു വസ്തുത ഏതൊരു സംസ്കാരത്തിന്റെയും നിയമങ്ങൾ നോക്കുമ്പോൾ ഈ വ്യത്യസ്തതകളെ ആ സംസ്കാരത്തിലെ സ്ഥിരം പ്രവണതയായി വിലയിരുത്തരുത് എന്നതാണ് പ്രോക്സെമിക്സ് പെരുമാറ്റത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ അടുത്ത ഒരു സുപ്രധാന ഘടകമാണ് ഹാൾ ആദ്യമേ തന്നെ പറഞ്ഞ വ്യത്യസ്ത അളവുകൾ ഹാളിനെ സംബന്ധിച്ചിടത്തോളം പ്രോക്സെമിക്സ് പെരുമാറ്റം എന്നത് എട്ട് വ്യത്യസ്ത ഡൈമെൻഷനുകളുടെ പ്രവർത്തനമാണ് ഗവേഷണത്തിലും മറ്റും കൃത്യതയോടെ രേഖപ്പെടുത്തുവാൻ പറ്റുന്ന ചിഹ്നങ്ങളായാണ് ഹാൾ ഈ ഡൈമെൻഷനുകളെ രൂപപ്പെടുത്തിയത് ഇത് സൂക്ഷ്മനിരീക്ഷണത്തിന് ഗവേഷകരെ സഹായിക്കുന്നു അദ്ദേഹം പറയുന്ന ആദ്യ ഡൈമെൻഷൻ ശരീരവിന്യസന ശൈലിയനുസരിച്ച് ലിംഗം നിർണ്ണയിക്കുക എന്നതാണ് ലിംഗാധിഷ്ഠിതമായി ശരീര വിന്യസന ക്രമങ്ങൾ അടയാളപ്പെടുന്നുണ്ട് ഇതേക്കുറിച്ച് മനസ്സിലാക്കാൻ സംസ്കാരത്തെക്കുറിച്ചും അറിയണം രണ്ടാമത് അദ്ദേഹം പറയുന്നത് എസ എഫ് പി ആക്സിസിനെക്കുറിച്ചാണ് ഇതും സാംസ്കാരികമായി ബന്ധപ്പെട്ടിരിക്കുന്നു പ്രായം ലിംഗം സാമൂഹ്യ സ്ഥിതി തുടങ്ങിയവയെല്ലാംതന്നെ ഇവിടെയും ഘടകങ്ങളാകുന്നു സോഷ്യോഫ്യൂഗൽ ജനങ്ങളെ അകറ്റിയിരുത്തുന്ന സ്ഥല സജ്ജീകരണങ്ങളെക്കുറിച്ചാണ് വിവരിക്കുന്നത് സോഷ്യോപെറ്റൽ സ്ഥലസജ്ജീകരണങ്ങൾ ജനങ്ങളെ ഒരുമിച്ചിരുത്തുന്ന തരത്തിലുള്ളതാണ് മൂന്നാമത് അദ്ദേഹം പറയുന്നത് ശാരീരികമായ ഘടകത്തെക്കുറിച്ചാണ് ശാരീരികാവയവങ്ങളുടെ വിന്യസനം സ്പർശനസാധ്യത എന്നിവയെല്ലാം ഇവിടെ കണക്കാക്കുന്നു ഇതിനെ നാലു തരത്തിൽ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് അതിനുശേഷം അദ്ദേഹം പറയുന്നത് സ്പർശ ചിഹ്നങ്ങളെക്കുറിച്ചാണ് അതായത് ഓരോ ഇടപെടലിലും അനുവദനീയമായ സ്പർശനത്തിന്റെ തോത് എത്രയാണെന്ന് എങ്ങനെയാണ് ആളുകൾ സ്പർശിക്കുന്നത് എത്ര ഇടവിട്ട് സ്പർശിക്കുന്നു സ്പർശം അവിചാരിതമാണോ അതിൽ കരുതലും കൈത്താങ്ങാകലുമുണ്ടോ സ്പർശത്തെ ആളുകൾ സാധാരണ നിലയിൽ അംഗീകരിക്കുന്നുണ്ടോ അതോ അവർ അസ്വസ്ഥരാകുമോ എന്നിങ്ങനെ അപ്പോൾ പൊതു ഇടങ്ങളിൽ വച്ചുള്ള സ്പർശത്തിന്റെ തോത് സാംസ്കാരികമായി നിർണ്ണയിച്ചിരിക്കുന്നു അതുപോലെ തന്നെ ഏത് ശരീരഭാഗമാകണം സ്പർശിക്കേണ്ടത് എന്നതിലും സംസ്കാരികമായ ധാരണ കാണാം ഇനി വരും ചർച്ചകളിൽ നമ്മൾ കാണും തലയിൽ സ്പർശിക്കുന്നത് ചില സംസ്കാരങ്ങളിൽ അശുഭകരമായി കണക്കാക്കുന്നതിനെക്കുറിച്ച് അഞ്ചാമത് അദ്ദേഹം പറയുന്നത് നേത്രപരമായ കാര്യങ്ങളാണ് എത്രനേരം നേത്ര സമ്പർക്കം ഉണ്ടായിരുന്നു നോട്ടം ഷാർപ്പായിരുന്നോ വ്യക്തമായിരുന്നോ അതോ ഒഴിവാക്കൽ പ്രകടമായിരുന്നോ എന്നെല്ലാം ഇതും നമ്മുടെ സംസ്കാര ബോധത്തെയും ലിംഗഭേദത്തെയും സാമൂഹ്യ തലങ്ങളെയും ആശ്രയിച്ചിരിക്കുന്നു തുടർന്ന് അദ്ദേഹം താപ ചിഹ്നങ്ങളെക്കുറിച്ചും ഘ്രാണ ചിഹ്നങ്ങളെക്കുറിച്ചും പറയുന്നു വളരെ അടുത്ത് ഇരിക്കുമ്പോൾ ശരീര താപം ആളുകൾക്ക് എങ്ങനെ അനുഭവപ്പെടുന്നു എന്ന് നോക്കുന്നു ഘ്രാണപരമായ ചിഹ്നങ്ങൾ എന്നാൽ മണത്തിലൂടെ നമ്മൾ കൈമാറുന്ന ആശയങ്ങളും എത്തിച്ചേരുന്ന അനുമാനങ്ങളുമാണ് ഇതിനും ഓരോ സംസ്കാരത്തിലും അതിന്റേതായ സ്വീകാര്യതയും അസ്വീകാ ര്യതയുമുണ്ട് അവസാനമായി അദ്ദേഹം പറയുന്നത് അകലം ബന്ധം വിഷയം സംസ്കാരം തുടങ്ങിയവയെ ആശ്രയിച്ചുള്ള ശബ്ദത്തിന്റെ വിന്യസനത്തെക്കുറിച്ചാണ് ഈ സംവിധാനങ്ങളും അതിന്റെ തോതും ശരീര സ്ഥിതിയെയും ആശ്രയിച്ചിരിക്കുന്നു പ്രോക്സെമിക്സ് പെരുമാറ്റവുമായി ബന്ധപ്പെട്ട നമ്മുടെ ധാരണകളിൽ ഇതെല്ലാം ഒരുപോലെ പ്രാധാന്യമർഹിക്കുന്നില്ല ഇവയിലെ സങ്കീർണ്ണതകളും പല തോതിലാണ് ഉദാഹരണത്തിന് താപ-ഘ്രാണ ചിഹ്നങ്ങളേക്കാൾ സങ്കീർണ്ണമാണ് നമ്മുടെ നേത്ര ചിഹ്നങ്ങളെക്കുറിച്ചുള്ള ധാരണ ഈ ഡൈമെൻഷനുകളെക്കുറിച്ച് അകലത്തിന്റെ നാല് തലങ്ങളെക്കുറിച്ച് പറയുന്നു പക്ഷേ ഓരോ പ്രത്യേക പെരുമാറ്റവും പ്രതികരണവും അതാത് സംസ്കാരത്തോട് ചേർന്നു നില്ക്കുന്നു വീണ്ടും പ്രോക്സെമിക്സിന്റെ സാംസ്കാരിക വശത്തിന് ഹാൾ ഊന്നൽ നല്കുന്നുവെന്ന് കാണാം പ്രോക്സെമിക്സുമായി ബന്ധപ്പെട്ടു കിടക്കുന്ന മറ്റൊരു വസ്തുതയാണ് നമുക്കു ചുറ്റുമുള്ള നിർമ്മിത സ്ഥലങ്ങൾ അതും നമ്മുടെ ഉള്ളിലുള്ള അബോധ ധാരണകളുടെ പ്രതിഫലനമാണ് പ്രോക്സെമിക്സ് പെരുമാറ്റത്തിന്റെ ചട്ടങ്ങൾ നമ്മുടെ സാംസ്കാരിക ബോധത്തെയും ഭരിക്കുന്നുണ്ടെന്ന് നമ്മിൽ അധികം പേർക്കും അറിയില്ല ഒരു വിദേശ രാജ്യം സന്ദർശിക്കുമ്പോഴും അറിഞ്ഞുകൊണ്ട് ശീലങ്ങളിൽ നിന്ന് വ്യതിചലിക്കേണ്ടി വരുമ്പോഴും നമ്മൾ ഇതേക്കുറിച്ച് ബോധവാന്മാരാകുന്നു സാംസ്കാരിക ഇടം ഒരു ബന്ധത്തിന്റെ പ്രകൃതത്തെക്കുറിച്ചുള്ള ധാരണ നല്കുന്നു കാതറിൻ സോറെല്ലിന്റ വാക്കുകളെ ഞാനിവിടെ ഉദ്ധരിക്കുകയാണ് "വ്യക്തിപരമായ അകലം ഭേദിച്ച് ആരെങ്കിലും കൂടുതൽ അടുത്തു വന്നാൽ 'ഇതെന്താണ് ഇവിടെ സംഭവിക്കുന്നത് ' എന്ന തോന്നലുണ്ടാകാം " സംസ്കാര ധാരണകൾ ഭിന്നമായതു കൊണ്ടുതന്നെ പല തെറ്റിദ്ധാരണകൾക്കും സാധ്യതയുണ്ട് അതിനാൽ നമുക്ക് പ്രോക്സെമിക്സ് ധാരണകളിലെ സംസ്കാര വ്യതിയാനങ്ങളെക്കുറിച്ചുള്ള അവബോധം എപ്പോഴും ആവശ്യമാണ് പ്രോക്സെമിക്സിനെക്കുറിച്ചുള്ള ധാരണകളിൽ നമുക്ക് ലഭ്യമാകുന്ന സ്ഥലം ഔപചാരികമോ അനൌപചാരികമോ എന്നതും പ്രധാനമാണ് പ്രോക്സെമിക്സ് പഠനത്തിന്റെ ഭാഗമായി സ്ഥലസജ്ജീ കരണങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ സംസ്കാര വ്യതിയാനങ്ങളെയും നാം ഓർക്കണം നമുക്ക് ലളിതമായി പറയാം മൂന്നു തരം ധാരണകളാണ് സ്ഥല ബോധനത്തിൽ ഉൾപ്പെടുന്നതെന്ന് സ്ഥലത്തിന്റെ സംസ്കാര ബോധം ഉണ്ട് എന്നത് വാസ്തവമാണ് ഉദാഹരണത്തിന്നായി ഫർണിഷ്ചെയ്ത ചെറിയൊരു മുറി ഒരാൾക്ക് സുഖപ്രദമായും അതേസമയം മറ്റൊരാൾക്ക് അടച്ചുപൂട്ടലായും തോന്നാം ഏതായാലും ഗവേഷകർ ചൂണ്ടിക്കാണിക്കുന്ന മൂന്ന് ഇടങ്ങൾ ഇവയാണ് -ഫിക്സഡ് ഫീച്ചർ സ്പേസ് വ്യത്യസ്ത സംസ്കാരവും പ്രോക്സെമിക്സും എല്ലാം ഒരു വിഷയമായി മാറുന്നത് ഫിക്സഡ് ഫീച്ചർ സ്പേസിലാണ് സ്ഥലസജ്ജീകരണത്തിലെ സോഷ്യോ ഫ്യൂഗൽ സംവിധാനങ്ങൾ സെമിഫിക്സഡ് ഫീച്ചർ സ്പേസിൽ ഏറ്റവും അധികമാണ് ഫിക്സഡ് ഫീച്ചർ സ്പേസ് നമുക്ക് ചുറ്റുമുള്ള ചലനരഹിത സ്ഥലപരിമിതി കളാണ് ഭിത്തി മതിൽ എന്നിവ പോലെ ഓഫീസ് സ്ക്കൂൾ ആരാധനാലയങ്ങൾ തുടങ്ങിയവ നിർമ്മിക്കുമ്പോൾ ഇതിന് പ്രാധാന്യമുണ്ട് നിശ്ചിത സ്ഥലത്തെക്കുറിച്ചുള്ള ഈ ബോധം വളരെ ചെറുപ്രായത്തിൽതന്നെ ഉള്ളിലുറയ്ക്കുന്നു സ്കിന്നറുടെ രൂപപ്പെടുത്തി ശിക്ഷയിലൂടെയും പുനരാവർത്തനങ്ങളിലൂടെയുമാണ് ചില ശീലങ്ങൾ വളർത്തിയെടുക്കുക എന്ന് അദ്ദേഹം പറയുന്നു ശരിയായതിനെ പ്രോത്സാഹിപ്പിക്കുകയും തെറ്റായതിനെ ശിക്ഷിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക ഈ ഒരു രീതിയിലാണ് ഫിക്സഡ് ഫീച്ചർ സ്പേസ് മനസ്സിലാക്കുന്നതും ചലനാത്മകമായ സജ്ജീകരണങ്ങളാണ് സെമി ഫിക്സഡ് ഫീച്ചർ സ്പേസിലുള്ളത് ഉദാഹരണത്തിന് കർട്ടൻ സ്ക്രീൻ ഫർണ്ണീച്ചറുകളുടെ സംവിധാന ക്രമത്തിലൂടെ ഉണ്ടാക്കുന്ന പാർട്ടീഷ്യനുകൾ തുടങ്ങിയവ അത് അതിരുകളാണെന്നും അതിലൂടെ മുന്നോട്ടു വയ്ക്കുന്ന ധാരണ എന്തെന്നും വ്യക്തമാണ് നമ്മൾ ഒരു മുറിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ ഫർണ്ണീച്ചറുകളും മറ്റും ഇട്ടിരിക്കുന്നവിധം നമ്മുടെ മനസ്സിൽ ഒരു മതിപ്പുളവാക്കും അപ്പോൾ ലളിതമായി പറഞ്ഞാൽ ഫർണ്ണീച്ചറുകളുടെ സജ്ജീകരണവും മറ്റും ആ അന്തരീക്ഷത്തെ വിലയിരുത്തുന്നതിന് കാരണമാകുന്നു ഉദാഹരണത്തിന് നിങ്ങൾ ഈ വലതു വശത്ത് മുകളിലുള്ള ആ ചിത്രമൊന്ന് ശ്രദ്ധിക്കൂ അത് തുറന്ന സൌഹാർദ്ദപരമായ അന്തരീക്ഷത്തെക്കുറിച്ചുള്ള ബോധം ഉളവാക്കുന്നു നോൺ ഫിക്സഡ് ഫീച്ചർ സ്പേസ് എന്നത് അനൌപചാരികമായ ഒരിടമാണ് അവിടെ വ്യക്തി തന്റെ ഇച്ഛക്കനുസരിച്ച് സ്ഥല പരിമിതികൾ മാറ്റിക്കൊണ്ടിരിക്കുന്നു ഇടപെടുന്നവർ തമ്മിൽ അബോധപൂർവ്വമായി ത്തന്നെ ആ അകലത്തെ കൂട്ടിയും കുറച്ചും പരിപാലിക്കുന്നു ഓരോരുത്തരും സ്വയം തെരഞ്ഞെടുക്കുന്ന ഇടങ്ങളും അവർക്ക് ചുറ്റുമുള്ള വസ്തുക്കളും ആ വ്യക്തിയെക്കുറിച്ചുള്ള ധാരണയുളവാക്കുന്നു നിങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട് പരസ്പരം ഇടപെടുമ്പോൾ പ്രത്യേകിച്ചും ഇരിക്കാനൊരു സ്ഥലം തെരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ആ സ്ഥലം കയ്യാളുക മാത്രമല്ല ചെയ്യുന്നത് നമുക്ക് ചുറ്റുമുള്ള അദൃശ്യമായ കുറച്ചു സ്ഥലത്തെയും കയ്യടക്കുന്നു നമ്മൾ അവിടെ നമ്മുടെ സാധനങ്ങൾ എന്തെങ്കിലും വയ്ക്കുന്നു ആരെങ്കിലും ഒരു ഫയലോ ഒരു കപ്പ് ചായയോ ഒന്ന് തള്ളി നീക്കിയാൽപ്പോലും അതിരുകടന്നുവെന്ന ചിന്ത നമുക്ക് വന്നു പോകുന്നു അപ്പോൾ എപ്പോഴെങ്കിലും നമ്മൾ താല്പര്യപ്പെടാത്ത ശബ്ദമോ കാഴ്ച്ചയോ മണമോ നമ്മുടെ ചുറ്റുവട്ടത്തേക്കുവന്നാൽ നമ്മുടേതായ എന്തിനെയോ ലംഘിച്ചിരിക്കുന്നുവെന്ന തോന്നലാണ് ഉണ്ടാകുക അതാണ് പറയുന്നത് നോൺ ഫിക്സഡ് സ്പേസിനെക്കുറിച്ചുള്ള സങ്കല്പം നമ്മുടെ മാനസിക തലങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു മാത്രമല്ല നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവുമധികം പ്രഭാവം കൊണ്ടുവരുവാൻ കഴിയുന്ന ഇടം കൂടിയാണിത് ഇതും നോൺ ഫിക്സഡ് ഫീച്ചർ സ്പേസിനെക്കുറിച്ചുള്ള ഒരു ധാരണയാണ് അപ്പോൾ ഏതാണോ നമ്മുടെ സ്ഥലം ഏതാണോ നമ്മുടെ ശരീരത്തെ വളരെപ്പെട്ടെന്നുതന്നെ ചുറ്റപ്പെടുന്ന സ്ഥലം അതിനെ നമ്മൾ നമ്മുടെ സ്ഥലമായി കണക്കാക്കുന്നു പ്രോക്സെമിക്സ് വാസ്തുവിദ്യാ ഘടനയുമായും വളരെ അടുത്തു നില്ക്കുന്നു നമ്മൾ നമ്മുടെ ചർച്ചയിൽ പറഞ്ഞിരുന്നതു പോലെ ഫിക്സഡ് ഇടങ്ങളും കൃത്യമായ അതിരുകളാൽ നിർണ്ണീതമാണ് അത് പല അർത്ഥങ്ങളും വിനിമയം ചെയ്യുകയും ചെയ്യുന്നു അതിന്റെ ഒരു അവസാന ഉദാഹരണമാണ് നഗരവല്ക്കരണത്തിലെ പുതുരൂപകല്പനകൾ ഒരു സാമൂഹിക ഇടത്തിന്റെ ഡിസൈനിൽ സാമൂഹിക ഘടന നിർമ്മിത അന്തരീക്ഷം മനുഷ്യ സ്വഭാവം എന്നിവയെയെല്ലാം അഭിമുഖീകരിക്കേണ്ടതിന്റെ സങ്കീർണ്ണത കാണാം നമ്മൾ അതിനോട് പ്രതികരിക്കുന്ന രീതിയും രസകരമാണെന്ന് ശ്രദ്ധിച്ചാൽ കാണാം ഉദാഹരണത്തിന് ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നതു നോക്കൂ അമേരിക്കയിലെത്തുന്ന ജർമ്മൻ ബിസിനസ്സുകാർ അവിടുത്തെ ഓഫീസുകളുടെ തുറന്ന വാതായനങ്ങൾ കാണുമ്പോൾ സ്വാസ്ഥ്യമുള്ള മനോഭാവമാണെന്ന് കരുതുകയും എന്നാലതിനെ ബിസിനസ്സിന് യോജിക്കാത്തതായി വിലയിരുത്തുകയും ചെയ്യുന്നു അവർക്ക് വാസ്തു വിദ്യയിലെ ഈ തുറന്ന സമീപനത്തോട് താല്പര്യമില്ല തിരിച്ച് പരമ്പരാഗത ജർമ്മൻ സാഹചര്യങ്ങളിലേക്ക് എത്തുന്ന അമേരിക്കക്കാർക്ക് ഓഫീസുകൾ വളരെ അടഞ്ഞതും രഹസ്യാ ത്മകതയുള്ളതുമായി തോന്നും ഇതിൽ നിന്നും പ്രോക്സെമിക്സിന്റെ സാംസ്കാരിക ധാരണകൾ വാസ്തുശൈലികളിൽപ്പോലും അന്തർലീനമായിരിക്കുന്നത് എങ്ങനെ എന്ന് മനസ്സിലാക്കാം നമ്മൾ ആന്തരിക രൂപകല്പനയെ നോക്കുന്ന വിധവും പ്രാധാന്യമുള്ളതാണ് അപ്പോൾ സാമൂഹിക സാംസ്കാരിക അകലങ്ങളെ ഈ ആന്തര രൂപകല്പനയും സ്വാധീനിക്കുന്നു മാറുന്ന സംസ്കാര ചട്ടത്തിനനുസരിച്ച് ആന്തരികമായ സ്ഥല സങ്കല്പങ്ങളും മാറുന്നു നമ്മുടെ ഓഫീസ് ഘടനയിൽത്തന്നെ വ്യക്ത്യധിഷ്ഠിത തൊഴിലന്തരീക്ഷത്തിൽ നിന്നും കൂട്ടായ സംസ്കാത്തിലേക്ക് മാറിയിരിക്കുന്നു പണ്ട് ഓഫീസ് സജ്ജീകരണങ്ങൾക്ക് ഒരു സ്ഥിരഘടനയുണ്ടായിരുന്നു എന്നാലിന്ന് സ്മാർട്ട് ഓഫീസ് സജീവമായതോടെ സജ്ജീകരണങ്ങൾ അയവുള്ളതാവുകയും ഓരോ ടീമിനും ഓരോ ഇടങ്ങൾ കണ്ടെത്തുകയും ചെയ്യുന്നു അപ്പോൾ സ്ഥലം എന്നത് നിശ്ചിതമല്ലാതെയാകുന്നു ഓരോ പ്രവർത്തനത്തിനും അനുയോജ്യമായ തൊഴിൽ സങ്കേതങ്ങൾ താല്ക്കാലികമായി രൂപപ്പെടുന്നു ഒരു സ്ഥിര സങ്കേതത്തിലിരുന്ന് പ്രവർത്തിച്ചിരുന്നയാൾക്ക് സ്വതന്ത്രമായി ചെയ്തിരുന്നതിന്റെ ആ ഉത്സാഹം പുതിയ സങ്കേത മാറ്റത്തിൽ നഷ്ടപ്പെടുവാനിടയുണ്ട് പ്രവർ ത്തനങ്ങൾ പങ്കുവയ്ക്കുന്നതിനനുയോജ്യമായ ഓഫീസ് സൌകര്യങ്ങൾ കമ്പനികൾക്ക് ഉണ്ടാകേണ്ടതുണ്ട് അതേസമയം തന്നെ അവിടെ നിലനില്ക്കുന്ന അകലത്തെ സംരക്ഷിക്കുകയും വേണം തുറന്ന ഇടങ്ങളിൽ ശബ്ദക്രമീകരണങ്ങളും വ്യക്തിപരമായ അതിർവരമ്പുകളും ഉണ്ടാകേണ്ടത് അനിവാര്യമാണ് ഈ അതിരിനെ കുറിച്ചുള്ള നമ്മുടെ ബോധം പ്രോക്സെമിക്സിന്റെ നാലു മേഖലകളെക്കുറിച്ചുള്ള ധാരണയുമായും ബന്ധപ്പെട്ടിരിക്കുന്നു പ്രാഥമികമായി നമ്മൾപറയുന്ന ശരീരം എന്ന അതിര് എപ്പോഴും നമ്മുടെ കൂടെത്തന്നെയുണ്ടുതാനും അപ്പോളവിടെ ഒരു പ്രാഥമിക അതിരുണ്ടെന്ന് വന്നു - വീട് കാറ് പിന്നെ അവിടെയൊരു രണ്ടാമത്തെ അതിരുണ്ട് നമ്മുടെ ചെറിയ കൂട്ടായ്മകൾ നമ്മൾ ചെന്നിരിക്കുകയും ഇടപഴകുകയും ചെയ്യുന്നിടം- ഓഫീസ് സ്ക്കൂൾ തുടങ്ങിയവ അവസാനമായി പൊതു അതിര് അത് തുറന്ന ഇടമാണ് നമ്മുടെ വ്യക്തിത്വത്തെ അടയാളപ്പെടുത്തുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നതിൽ ഈ അതിരുകൾക്ക് വലിയ സ്ഥാനമുണ്ട് ചില ആളുകൾ നമുക്കു ചുറ്റും ചെയ്യുന്ന അടയാളപ്പെടുത്തലുകളെക്കുറിച്ച് നാം നേരത്തെ സൂചിപ്പിച്ചിരുന്നു പരസ്പര ബന്ധങ്ങൾ മാനങ്ങൾ എന്നിവ എങ്ങനെ നിലനില്ക്കുന്നുവെന്ന രസകരമായ വസ്തുതയാണ് ഇത് കാണിച്ചു തരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകാം വളരെ ഇടുങ്ങിയ ഓഫീസ് സാഹചര്യത്തിലും നിരവധിയാളുകൾ ഒരുമിച്ചിരുന്ന് ദീർഘനേരം ജോലി ചെയ്യുന്നത് അവിടെ ചിലപ്പോൾ ചെറിയ ഗ്ലാസ്സ് അതിരുകളുണ്ടാകാം പൊക്കം കുറഞ്ഞ ഇടുങ്ങിയ ഒന്ന് എന്നാൽപ്പോലും അത് തന്റേതായ ഒരു ഇടത്തെ അടയാളപ്പെടുത്തുന്നു ഭക്ഷണശാലകളിൽ മേശ സജ്ജമാക്കിയിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം അത് രണ്ടു പേർക്കുള്ള ഇരിപ്പിടത്തിന്റേതാണെ ങ്കിൽക്കൂടി മേശയുടെ നടുക്ക് ചെറിയ എന്തെങ്കിലും ഒരു വസ്തു വച്ചിട്ടുണ്ടാകാം നടുക്കിരിക്കുന്ന കെച്ചപ്പോ ഉപ്പുപാത്രമോ അത് തന്റെ സ്ഥലം ഇത് എന്റെ സ്ഥലം എന്ന വരമ്പ് സൃഷ്ടിക്കുന്നുണ്ട് അതേ സമയം സുഹൃത്തുക്കൾ ഒന്നിച്ചിരിക്കുന്ന ഇടമാണെങ്കിൽ അവർ ഇതിനെയെല്ലാം ഒരു അരികിലേക്ക് മാറ്റിവച്ചിട്ട് സ്ഥലം പങ്കുവയ്ക്കുന്നു ഇപ്പോൾ നിങ്ങൾ രണ്ടു പേരുടെ സജ്ജീകരണത്തിൽ ഒരു കപ്പ് ചായ കുടിക്കുകയാണെങ്കിൽ അല്പസമയം മറ്റൊരാളുമായി റസ്റ്റൊറന്റിൽ സമയം പങ്കിടുകയാണെങ്കിൽ അയാൾ നിങ്ങൾക്കത്ര അടുപ്പമില്ലാത്ത വ്യക്തിയായതിനാൽ ഔപചാരികമായി ഉറച്ച ടോണിൽ നിങ്ങൾ സംസാരിക്കവേ ഈ ചെറിയ ഒരു പരീക്ഷണം ചെയ്തു നോക്കൂ നിങ്ങൾ ആ കെച്ചപ്പോ ഉപ്പുപാത്രമോ അയാളുടെ അടുത്തേക്ക് നീക്കിക്കൊണ്ട് നിങ്ങളുടെ വശത്തെ കൂട്ടുന്നു അല്പസമയത്തിനുള്ളിൽ നിങ്ങൾക്കു കാണാം അയാളത് തിരിച്ച് നീക്കിക്കൊണ്ട് സ്വന്തം വശം വലുതാക്കുന്നത് ഇത് വീണ്ടും ചെയ്താലും തിരിച്ച് സംഭവിക്കും ആളുകൾ അത്രമാത്രം പ്രോക്സെമിറ്റിയെക്കുറിച്ച് ബോധവാന്മാരാണ് അല്പസമയത്തിനകം അതൊരു വടംവലിയായി മാറും ബന്ധത്തിന്റെയും കരുത്തിന്റെയുമൊക്കെ അടയാളമായി അത് മാറുന്നു നിങ്ങൾക്ക് കാണാം ഇപ്പോൾ നിങ്ങളൊരു ദ്വിദിന കോണഫറൻസിൽ പങ്കെടുക്കുവാൻ പോയാൽ ആദ്യം എവിടെയാണോ ഇരുന്നത് അവിടെത്തന്നെ ആയിരിക്കും തുടർന്നുള്ള സെഷൻസിലും ഇരിക്കുന്നത് അവിടവുമായി നമ്മൾ അബോധപൂർവ്വമായ ഒരു ബന്ധം സ്ഥാപിച്ചുകഴിഞ്ഞിരിക്കും നമ്മുടെ ആശയവിനിമയത്തിലെ ഈ ഘടകങ്ങൾ പ്രോക്സെമിറ്റിയിലും ബാധകമാകുന്നു ഇരിപ്പിട സജ്ജീകരണത്തിലും നമുക്ക് ചില പ്രോക്സെമിക്സ് ലിങ്കുകൾ കാണാം അധികാരം മേൽക്കൈ എന്നിവ അവിടെ ഘടകങ്ങളാകുന്നു ഇരിപ്പിട സജ്ജീകരണത്തിന്റെ കേന്ദ്രം എന്നു പറയുന്നത് അധികാരത്തെ സൂചിപ്പിക്കുന്നു ഒരു ഗ്രൂപ്പിലെ ഏറ്റവും കേന്ദ്രമായ സ്ഥാനം അംഗങ്ങളുടെ പങ്കാളിത്തത്തെ അനുവദിക്കുന്നുണ്ട് സിനിമയിൽ തിയേറ്ററുകളിൽ വേദിയിലെല്ലാം ഈ പ്രോക്സെമിക്സിന്റെ സാംസ്കാരിക ധാരണ പ്രതിഫലിക്കുന്നു അപ്പോളിന്ന് നമ്മളിവിടെ പ്രോക്സെമിക്സിനെപ്പറ്റിയുള്ള ചർച്ച അവസാനിപ്പിക്കുകയാണ് നിങ്ങൾ കണ്ടുകാണും നമ്മൾ കഴിഞ്ഞ രണ്ട് മോഡ്യൂളുകളിൽ പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിക്കുന്നത് വാചികേതര ആശയവിനിമയത്തിന്റെ ഇതരഘടകങ്ങളിൽ ഇവ ഇനിയും പരാമർശിക്കപ്പടും കാരണം ഒറ്റയ്ക്ക് അതിനെക്കുറിച്ച് പറയുവാനാകില്ല ഇനി അടുത്ത മോഡ്യൂളിൽ നേത്രസമ്പർക്കത്തെക്കുറിച്ച് നോക്കാം